ഈ സാങ്കേതിക പദങ്ങളല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഇത് വഴി നിങ്ങൾക്ക് മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് കാണാനാവുന്നതാണ് L1 എന്നത് കോയിൽ 1 ന്റെ സെൽഫ് ഇൻഡക്ടൻസാണ് L2 എന്നത് കോയിൽ 2 ന്റെ സെൽഫ് ഇൻഡക്ടൻസാണ് N1 എന്നത് കോയിൽ 1 ന്റെ ടേണുകളുടെ എണ്ണമാണ് N2 എന്നത് കോയിൽ 2 ന്റെ ടേണുകളുടെ എണ്ണവുമാണ് ∅1 എന്നത് കോയിൽ 1 ൽ നിന്ന് പുറപ്പെടുന്ന കാന്തിക പ്രവാഹമാണ് ∅11 കോയിൽ 1 നെ മാത്രം ബന്ധിപ്പിക്കുന്ന ∅1 ന്റെ ഒരു ഘടകമാണ് ∅12 കോയിൽ 1 നെയും കോയിൽ 2 നെയും ബന്ധിപ്പിക്കുന്ന ∅1 ന്റെ മറ്റൊരു ഘടകമാണ് അതിനാൽ ∅1 ∅11 ∅12 എന്നതാണ് ടോട്ടൽ ഫ്ളക്സ് ഇനി 2 കോയിലുകളും ശാരീരികമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവ കാന്തികമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു കാരണം ഫ്ലക്സിന്റെ ഭാഗം മറ്റ് കോയിലിനെയും ബന്ധിപ്പിക്കുന്നു മൊത്തം ഫ്ളക്സായ ∅1കോയിൽ 1 നെ ബന്ധിപ്പിക്കുന്നതിനാൽ കോയിൽ 1 ലെ വോൾട്ടേജ് ഇൻഡ്യൂസ് v1 N 1 d ∅1 dt ആയിരിക്കും കാരണം ∅1 ∅11 ∅12 ആണ് ഫ്ളക്സ് ∅12 മാത്രമേ കോയിൽ 2 നെ ബന്ധിപ്പിക്കുന്നൊള്ളു അതിനാൽ കോയിൽ 2 ലെ വോൾട്ടേജ് v2 N2 d ∅12 dt ആണ് മുമ്പത്തെ ഡയഗ്രത്തിൽ N2 ടേണുകളുടെ എണ്ണവും പിന്നെയുള്ള d ∅12 dt ഉണ്ടാവാൻ കാരണം ∅ ക്ക് കോയിൽ 2 ബന്ധിപ്പിക്കണം അതിനാൽ v2 N2 d ∅12 dt കോയിൽ 1 ൽ ഒഴുകുന്ന നിലവിലെ കറണ്ട് i1 മൂലമാണ് ഫ്ലക്സുകൾ ഉണ്ടാകുന്നത് ഫ്ളക്സ് ∅1ഉണ്ടാകുന്നത് കറണ്ട് i1 മൂലമാണ് കാരണം കോയിൽ 2 ൽ വൈദ്യുതി സ്രോതസ്സുകളൊന്നും ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ നമുക്ക് ചെയിൻ റൂൾ പ്രകാരം v1 N1 d ∅1 d i1 d i1 dt ഇത് L1 d i1 dt എന്നായി എഴുതാം അതിനർത്ഥം L1 N1 d ∅1 d i1 അത് കോയിൽ 1 ന്റെ സെൽഫ് ഇണ്ടക്റ്റൻസാണ് ഇനി സമാനമായി നമുക്ക് v2 N2 d ∅12 d i1 d i1 dt എന്നായി എഴുതാം ഇത് യഥാർത്ഥത്തിൽ മ്യൂച്ചൽ ഇൻഡക്റ്റൻസാണ് ഇത് M 21 d i1 dt ക്ക് തുല്ല്യമാണ് അതിൽ M21 N2 d ∅12 d i1 ഇതും യഥാർത്ഥത്തിൽ മ്യൂച്ചൽ ഇൻഡക്റ്റൻസാണ് അതിനാൽ M21 കോയിൽ 1 നോടനുബന്ധിച്ച് കോയിൽ 2 ന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇതാണ് സഫിക്സിന്റെ അർത്ഥം സബ്സ്ക്രിപ്റ്റ് 2 1 സൂചിപ്പിക്കുന്നത് ഇൻഡക്റ്റൻസ് M21 കോയിൽ 2 ൽ ഉളവാക്കിയ വോൾട്ടേജിനെ കോയിൽ 1 ലെ വൈദ്യുതധാരയുമായി ബന്ധപ്പെടുത്തുന്നു ഇതാണ് ഇതിന്റെ അർഥം അതിനാൽ കോയിൽ 2 ൽ ഉടനീളമുള്ള ഓപ്പൺ സർക്യൂട്ട് മ്യൂച്വൽ വോൾട്ടേജ് v2 M21 d i1 dt ആയിരിക്കും കാരണം കറണ്ട് i1 ആണ് യഥാർത്ഥത്തിൽ ഫ്ലക്സ് ∅1 സൃഷ്ടിക്കുന്നത് അതിനാൽ v2 N21 d i1 dt ആയിരിക്കും ഇനി സമാനമായി ഈ ഭാഗത്ത് കറണ്ട് i2 കൊണ്ട് എക്സൈറ്റ് ചെയ്യുകയും ഈ ഭാഗത്ത് r v1 L1 L2 d എന്നിവയും താഴെ ∅2 ഉണ്ട് മുമ്പത്തേതിന് പോലെ മൊത്തം ഫ്ളക്സായ ∅2∅22∅21 ∅2 ന്റെ ഒരു ഭാഗം ഈ കൊയിലിനെ ബന്ധിപ്പിക്കുന്നുണ്ട് ∅21ഉം ∅22ഉം കോയിൽ 2 നെ ബന്ധിപ്പിക്കുന്നുണ്ട് ഇത് വോൾട്ടേജ് v2 ആണ് കോയിൽ 2 നോടനുബന്ധിച്ച് കോയിൽ 1 ന്റെ മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് M12 ആണ് ഇത് ഇനി മുമ്പത്തെ പോലെ ∅2 ∅21 ∅22 ആണ് അതായത് ചെയിൻ റൂൾ പ്രകാരം അത് N2 d ∅2 di2 di2 dt എന്നാവും ഇത് L2di2 dt ആണ് L2 കോയിൽ 2 ന്റെ സെൽഫ് ഇൻഡക്റ്റൻസാണ് v1 എന്നത് കോയിൽ 1 ലെ വോൾട്ടേജ് ആണ് അതിനാൽ v1 N1 d ∅21 dt N1 d ∅21 di2 di2 dt ഇത് വീണ്ടും ചെയിൻ റൂൾ പ്രകാരമാണ് ഈ ഭാഗം M12 ആണ് പിന്നെയുള്ളത് di2 dt അതിനാൽ v1 M12 di2 dt പക്ഷെ M12 ഉം M21 ഉം സമമാണ് അതായത് M12 M21 M ഇതിൽ വ്യത്യാസം ഉണ്ടാകില്ല അപ്പോൾ മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് സമമായിരിക്കും അതിനാൽ M എന്നത് M12 M21 ഇൻഡക്റ്ററുകളും കോയിലുകളും വളരെ അടുത്തായിരിക്കുമ്പോഴും അത് പോലെ സമയം വ്യത്യസ്തമായ ഉറവിടങ്ങളാൽ സർക്യൂട്ടുകൾ നയിക്കുമ്പോഴും മാത്രമേ മ്യൂച്ചൽ കപ്ലിംഗ് നിലനിൽക്കുകയൊള്ളു ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് നോക്കുക ഇൻഡക്റ്ററുകൾ ഡി സി യിലേക്കുള്ള ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു ഇൻഡക്റ്ററുകളും കോയിലുകളും വളരെ അടുത്തായിരിക്കുമ്പോഴും അത് പോലെ സമയം വ്യത്യസ്തമായ ഉറവിടങ്ങളാൽ സർക്യൂട്ടുകൾ നയിക്കുമ്പോഴും മാത്രമേ മ്യൂച്ചൽ കപ്ലിംഗ് നിലനിൽക്കുകയൊള്ളു ഇനി മ്യൂച്വൽ വോൾട്ടേജിന്റെ പോളാരിറ്റി നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ കാണേണ്ടത് മ്യൂച്വൽ വോൾട്ടേജിന്റെ പോളാരിറ്റി പ്രയോഗിച്ചുകൊണ്ടുമാണ് M di dt ക്കായുള്ള ശരിയായ പൊളാരിറ്റി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സർക്യൂട്ട് അനാലിസിസിൽ നമ്മൾ എന്തുചെയ്യുമെന്നാൽ മാഗ്നറ്റിക് സർക്യൂട്ട് അനാലിസിസിൽ ഡോട്ട് കൺവെൻഷൻ പ്രയോഗിക്കും അതിനാൽ ഈ സമ്പ്രദായം അനുസരിച്ച് രണ്ട് മാഗ്നറ്റിക് കോയിലുകളുടെയും ഒരു അറ്റത്ത് കാന്തിക പ്രവാഹത്തിന്റെ ദിശ സൂചിപ്പിക്കുന്നതിന് സർക്യൂട്ടിൽ ഒരു ഡോട്ട് സ്ഥാപിക്കുന്നു കൊയിലിന്റെ ആ ഡോട്ടഡ് ടെര്മിനലിലൂടെ കറന്റ് പ്രവേശിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ ഡോട്ട് ഉണ്ടെന്നും ഇവിടെയും ഡോട്ട് ഉണ്ടെന്നും വെക്കുക ഇവിടെയുള്ള കോയിലുകൾ വൌണ്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ചോദ്യം എന്തെന്നാൽ കറണ്ട് i1 ഈ ദിശയിലും കറണ്ട് i2 ഈ ദിശയിലും ആകുമ്പോൾ എങ്ങനെയാണ് പ്ലസും മൈനസും തിരഞ്ഞെടുക്കുക എന്നതാണ് ഇതാണ് കറണ്ട് പ്രവേശിക്കുന്നത് ഇനി ഇത് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഫ്ളക്സിന്റെ ദിശ ഇനി ഈ കോയിൽ 1 ന് യഥാർത്ഥത്തിൽ ∅1 ∅11 ∅12 ഈ കോയിൽ പിടിക്കുമ്പോൾ ഇതായിരിക്കും കറണ്ടിന്റെ ദിശ ഈ തള്ള വിരൽ ഫ്ളക്സിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു ഇത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുകയാണ് ഇത് ∅12 ആണ് ഇതും ഇതിൽ നിന്ന് പുറത്തേക്ക് വരുകയാണ് ഇത് കൊയിലിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ∅11 ആണ് സമാനമായി ഈ ഭാഗത്ത് നിന്നും കറണ്ട് പ്രവേശിക്കുന്നുണ്ട് അത് i2 ആണ് അതിനാൽ ∅2 ∅21 ∅22 ഇവിടെയും നമ്മൾ ഇത് പോലെ പിടിക്കുകയാണെങ്കിൽ കറണ്ട് ഈ ദിശയിലാണ് നീങ്ങുന്നത് കറണ്ടിന്റെ ദിശയിൽ നിങ്ങൾ കോയിൽ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വിരൽ ഇതിന്റെ താഴോട്ടായിരിക്കും നിൽക്കുന്നത് അതിനാൽ ഇതിന്റെ ഫ്ളക്സ് ഈ ദിശയിലാണ് പുറത്തേക്ക് വരുന്നത് അതിനാൽ ∅21 ഉം ∅22ഉം രണ്ടും ഒരേ ദിശയിലാണ് ഇത് കോയിൽ 2 നെ ബന്ധിപ്പിക്കുന്നു ഇതാണ് ഡോട്ട് സമ്പ്രദായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇത് ഡോട്ട് കൺവെൻഷന്റെ ഇതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഞാൻ ഒന്നൂടെ വ്യക്തമാക്കാം ഈ കോയിൽ നോക്കുക കറണ്ടിന്റെ ദിശ കാണുക കറണ്ടിന്റെ ദിശയിൽ കോയിൽ പിടിക്കുക തള്ള വിരലിന്റെ ദിശയാവും ഫ്ളക്സിന്റെ ദിശ ഈ വശത്ത് ഇതിന്റെ വോൾട്ടേജ് v2 നൽകിയിട്ടുണ്ട് അതിനാൽ മ്യൂച്ചൽ വോൾട്ടേജിന്റെ പൊളാരിറ്റി നിർണ്ണയിക്കാൻ ഡോട്ടുകൾ ഉപയോഗിക്കുന്നു ഇനി ഡോട്ട് കൺവെൻഷൻ ഇങ്ങനെയാണ് നൽകിയിട്ടുള്ളതെങ്കിൽ ഒരു കോയിലിന്റെ ഡോട്ട്ഡ് ടെർമിനലിലേക്ക് ഒരു കറന്റ് പ്രവേശിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കോയിലിലെ മ്യൂച്വൽ വോൾട്ടേജിന്റെ റഫറൻസ് പോളാരിറ്റി രണ്ടാമത്തെ കോയിലിന്റെ ഡോട്ട്ഡ് ടെർമിനലിൽ പോസിറ്റീവ് ആണ് ഇനി മറ്റൊരു വിധത്തിൽ ഒരു കോയിലിന്റെ ഡോട്ട്ഡ് ടെർമിനലിൽ നിന്ന് ഒരു കറന്റ് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ കോയിലിലെ മ്യൂച്വൽ വോൾട്ടേജിന്റെ റഫറൻസ് പോളാരിറ്റി രണ്ടാമത്തെ കോയിലിന്റെ ഡോട്ട്ഡ് ടെർമിനലിൽ നെഗറ്റീവ് ആയിരിക്കും ഇനി ഇതിലേക്ക് വരുകയാണെങ്കിൽ ഈ ഫിഗർ 10 ൽ രണ്ട് കോയിലുകൾ ഉണ്ട് ഇവിടെ ഡോട്ടുകളും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കറണ്ട് i1 പ്രവേശിക്കുന്നുണ്ട് ഈ കോയിലിനിടയിലുള്ള മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് M ആയിട്ടാണ് കാണിക്കുന്നത് ഇതിലെ മ്യൂച്ചൽ വോൾട്ടേജ് v2 M d i1 dt ഇതിൽ i1 എന്നത് കറണ്ടാണ് M മ്യൂച്ചൽ ഇൻഡക്റ്റൻസും നമ്മൾ ഇവിടെ M12 എന്നോ M21 എന്നോ എഴുതുന്നില്ല കാരണം M12 M21 M ആണ് ഇനി ഫിഗർ 10 ൽ മ്യൂച്വൽ വോൾട്ടേജ് v2 ന്റെ അടയാളം നിർണ്ണയിക്കുന്നത് v2 നായുള്ള റഫറൻസ് പോളാരിറ്റിയും i1 ന്റെ ദിശയുമാണ് ഇവിടെ റഫറൻസ് പോളാരിറ്റി ആണെന്ന് നൽകിയിട്ടുണ്ട് കറണ്ട് ഡോട്ടിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഡോട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ റഫറൻസ് പോളാരിറ്റി ആവുമ്പോൾ ഈ v2 M d i1 dt എന്നത് ആയിരിക്കും ഇപ്പോൾ സമാനമായി i1 കോയിൽ 1 ന്റെ ഡോട്ട്ഡ് ടെർമിനലിലേക്ക് പ്രവേശിക്കുന്നു അത് പോലെ കോയിൽ 2 ന്റെ ഡോട്ട്ഡ് ടെർമിനലിൽ v2 പോസിറ്റീവ് ആണ് അതിനാൽ മ്യൂച്ചൽ വോൾട്ടേജ് M d I d i1 dt ആണ് നമ്മൾ റഫറൻസ് പൊളാരിറ്റി ആണ് എടുത്തിട്ടുള്ളത് അതിനാൽ v2 ആണ് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് i1 കോയിൽ 1 ന്റെ ഡോട്ട്ഡ് ടെർമിനലിലേക്ക് പ്രവേശിക്കുന്നു അത് പോലെ കോയിൽ 2 ന്റെ ഡോട്ട്ഡ് ടെർമിനലിൽ v2 പോസിറ്റീവ് ആണ് അതിനാൽ മ്യൂച്ചൽ വോൾട്ടേജ് M d I d i1 dt ആണ് ഇനി രണ്ടാമത്തെ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഡോട്ട് ഉണ്ട് ഇവിടെയും ഡോട്ട് ഉണ്ട് കറണ്ട് ഈ ഡോട്ടിലേക്കാണ് പ്രവേശിക്കുന്നത് പക്ഷെ ഈ കേസിൽ റഫറൻസ് പോളാരിറ്റി എടുത്തത് മൈനസ് ആണ് അതിനാൽ v2 M d i1 dt എന്നാവും രണ്ട് രീതിയിലുള്ള കറണ്ടും വരുമ്പോളുള്ളത് നമുക്ക് പിന്നീട് നോക്കാം ഇനി കറണ്ട് i2 ഇവിടെ പ്രവേശിക്കുന്നുണ്ട് പക്ഷെ അത് ഡോട്ടിൽ നിന്ന് വിട്ട് പോവുകയാണ് ഇതാണ് കറണ്ട് i2 ഇത് ഡോട്ടിൽ നിന്ന് വിട്ട് പോവുകയാണ് ഇവിടെയുള്ള റഫറൻസ് പൊളാരിറ്റി ഇത് ആണ് പക്ഷെ ഇവിടെ കറണ്ട് വിട്ട് പോകുന്നതിനാൽ ഇത് ആണ് ഇനി മറ്റൊരു കാര്യം ഇവിടെ ഇത് M di2 dt കാരണം ഇവിടെ കറണ്ട് i2 ആണ് ഇനി ഞാൻ ഡോട്ട് ഇവിടെ ചേർക്കുകയാണെങ്കിൽ അത് M di2 dt ആവും പക്ഷെ ഇവിടെ കറണ്ട് ഡോട്ട് വിട്ട് പോകുന്നതിനാൽ റഫറൻസ് പൊളാരിറ്റി ആണ് സമാനമായി ഇവിടെ ഈ കേസിലും കറണ്ട് i2 ഡോട്ട് വിട്ട് പോവുകയാണ് റഫറൻസ് പൊളാരിറ്റിയും മൈനസ് ആണ് അതിനർത്ഥം ഇത് ആയിരിക്കും ഞാൻ ഇനി ഒരു വ്യത്യസ്ത നിയമം പറയാം ഉദാഹരണത്തിന് ഇത് ഉം ഇത് ഉം ആണെന്ന് വെക്കുക ഇനി ചോദ്യമെന്തെന്നാൽ ഇവിടെ രണ്ട് ഡോട്ടുകളും ഉണ്ടെങ്കിൽ ഇവിടെ ഇത് ആയിരിക്കും ഇനി അത് ഇവിടെയും ഇവിടെയും ആണെങ്കിൽ ആണെങ്കിൽ ആയിരിക്കും ഈ രൂപത്തിൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ ഓർത്തു വെക്കാം ഈ നിയമം നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാവും ഇനി നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ആണ് ഇവിടെ ഉറപ്പായും ഉം ഉം ആണ് ഇവിടെ ഇത് ആണ് അതിനാൽ ഉം ഉം ചേർന്നാൽ ആണ് ഇനി നിങ്ങൾ ഇവിടെയും ഇവിടെയും ആണ് ചേർക്കുന്നതെങ്കിൽ വീണ്ടും ഉം ഉം ചേർന്നാൽ ആണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കിത് ഓർത്ത് വെക്കാവുന്നതാണ് ഇനി മറ്റൊരു ഫിഗറിലേക്ക് വരുകയാണെങ്കിൽ ഇത് ആണ് ഇവിടെ ഇത് ആണ് അതിനാൽ ഉം ഉം ചേർന്നാൽ ആണ് ഇനി ഇവിടത്തെ ഡോട്ട് നേരെ തിരിച്ചാക്കുകയാണെങ്കിൽ അപ്പോഴും ഇത് ആയിരിക്കും ഇത് പോലെ തന്നെയാണ് ഫിഗർ 1 നും ഇത് ഉം ഇത് ഉം ആണ് അതിനാൽ ഉം ഉം ചേർന്നാൽ ആണ് അതിനാൽ ഉം ഉം ആണ് ആണ് അപ്പോൾ ഡോട്ട് കൺവെൻഷനിൽ ചിഹ്നം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇത് L1 ഉം ഇത് L2 ഉം ആയിട്ടെടുക്കുന്നു അത് കൊയിലിന്റെ ഇൻഡക്റ്റൻസാണ് മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് M എന്ന് നൽകിയിട്ടുണ്ട് ഈ വശത്ത് കറണ്ട് i1 ഉം ഈ വശത്ത് i2 ഉം ആണ് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നാൽ കറണ്ട് ഇവിടെയും ഇവിടെയും ആണ് പക്ഷെ കൺവെൻഷൻ നോക്കിയാൽ കറണ്ട് ഡോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കറണ്ടും ഈ ഡോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ട് കറണ്ടും ഡോട്ടിലേക്ക് പ്രവേശിക്കുകയാണെന്നതിനാൽ ചിഹ്നം ആയിരിക്കും അതിനാൽ v1 L1 d i1 dt M di2 dt ആയിരിക്കും ഇനി ഈ i2 കാരണം വോൾട്ടേജ് കോയിൽ 1 ൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും ഇത് മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് M ആണ് അതിനാൽ v2 di2 dt M di2 dt ഇനി ഇവിടെയുള്ള ഡോട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ വിശദീകരിച്ചത് പോലെ അതിന്റെ ചിഹ്നം മാറുന്നതാണ് ഉദാഹരണത്തിന് ഡോട്ട് ഇവിടെയാണെങ്കിൽ കറണ്ട് ഇവിടെ പ്രവേശിക്കുകയും ഇവിടെ അത് വിട്ട് പോവുകയുമാണ് അത്തരം സാഹചര്യത്തിൽ അത് ആവും അതുകൊണ്ട് ഡോട്ടുകൾ നേർ വിപരീതമാക്കുന്നതോ ഏതെങ്കിലും വൈൻഡിംഗിൽ വൈദ്യുതധാരകളുടെയോ വോൾട്ടേജുകളുടെയോ അനുമാനിക്കുന്ന ദിശയെ നേർ വിപരീതമാക്കുന്നതോ ഇക്വഷൻ 1 ലെ പരസ്പര പദങ്ങളുടെ ചിഹ്നം മാറ്റുന്നതാണ് ഇനി ഉദാഹരണത്തിന് ഇവിടെയുള്ള ഈ ദിശക്ക് പകരം കറണ്ടിന്റെ ദിശ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ കറണ്ട് ഈ ഡോട്ടിൽ നിന്ന് വിട്ട് പോവുകയാണ് ഇത് ഈ ഡോട്ടിലേക്ക് പ്രവേശിക്കുകയുമാണ് അപ്പോൾ ഇത് ആണ് ഇനി രണ്ട് കറണ്ടും ഡോട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇത് ആയിരിക്കും അത് പോലെ രണ്ട് കറണ്ടും ഡോട്ടിൽ നിന്ന് വിട്ട് പോവുകയാണെങ്കിൽ അപ്പോഴും ആയിരിക്കും ഒന്ന് ഡോട്ടിലേക്ക് പ്രവേശിക്കുന്നതും ഒന്ന് ഡോട്ടിൽ നിന്ന് വിട്ട് പോകുന്നതുമാണെങ്കിൽ അത് ആയിരിക്കും ഇത് ടൈം ഡൊമൈനിലുള്ളതായിരുന്നു ഇനി ഫ്രീക്വൻസി ഡൊമൈനിലുള്ളത് നോക്കുകയാണെങ്കിൽ മ്യൂച്ചൽ റിയാക്റ്റൻസ് L ആണ് അതിനാൽ ഇത് j L ആണ് ഇത് കറണ്ട് i1 ആണ് ഇത് i2 വും ഇത് j L1 ഉം ഇത് j L2 ഉം ആണ് അത്പോലെ ഇത് x l1 ഉം x l2 ഉം ഉണ്ട് x l1 L1 ഉം x l2 L2 ആണ് xm M എന്നത് മ്യൂച്ചൽ റിയാക്റ്റൻസാണ് അതിനാൽ x M M എന്നത് മ്യൂച്ചൽ റിയാക്റ്റൻസാണ് ഇവിടെ x l2 L2 ഇത് കോയിൽ 2 ന്റെ റിയാക്റ്റൻസാണ് അത് പോലെ ഇവിടെ x l1 L1 ഇത് കോയിൽ 1 ന്റെ റിയാക്റ്റൻസാണ് j എന്നത് ഇൻഡക്ടീവ് കൊയിലാണ് അത് പോലെ ഇത് മ്യൂച്ചൽ റിയാക്റ്റൻസാണ് അപ്പോൾ ഇത് ഫ്രീക്വൻസി ഡൊമൈനിലാണുള്ളത് ഇനി ഇവിടെ ഇതിൽ കറണ്ട് ഉള്ളത് കാരണം മ്യൂച്ചൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കേസിൽ ഇത് i1 ആണ് ഇതാണ് ഇൻഡക്റ്റർ ഇത് L1ആണ് ഇത് റിയാക്റ്റൻസ് ആവുമ്പോൾ ഇത് j L1 ഉം ഇത് j L2 ആണ് ഇത് കോയിൽ 1 ന്റെ റിയാക്ക്റ്റൻസാണ് ഇവിടെയൊരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നതിനാൽ ഇത് j M i2 ആയിരിക്കും ഇവിടെ ഒരു കറണ്ട് i2 ഉള്ളതിനാൽ ഇത് j M i2 ഉം ഇത് j M i1 ആണ് ഇതിലെ M ഇവിടുത്തെ മ്യൂച്ചൽ ഇൻഡക്റ്റൻസാണ് ഇനി ഇവിടെ ഈ സമവാക്യത്തിലും ഇതേ കാര്യമാണ് ലഭിക്കുന്നത് ഇവിടെയുള്ള d dt യെ j കൊണ്ട് മാറ്റുകയാണെങ്കിൽ ഇത് v1 j L1 i1 M j i2 ആവും ഇവിടെയും നിങ്ങൾക്ക് ഇത് തന്നെ ലഭിക്കുന്നതാണ് അതിനാൽ ഫ്രീക്വൻസി ഡൊമെയ്നിൽ മറ്റ് കോയിലുകളിലെ വോൾട്ടേജ് ഇൻഡ്യൂസിന്റെ പൊളാരിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള d dt യെ j കൊണ്ട് മാറ്റുകയാണെങ്കിൽ ഇത് j L1 i1 ഉം ഇത് j M i2 ആവും ഇനി ഇതിൽ നിന്ന് i1 നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാവുന്നതാണ് i1 v1 j L1 j M അത് പോലെ ഈ സമവാക്യം v1 i1 j L1 j M i2 എന്നായി എഴുതാവുന്നതാണ് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് പിന്നീട് നോക്കാം ഇനി ഉദാഹരണത്തിന് v1 r j L1 അത് പോലെ ഇവിടെയുള്ള മ്യൂച്ചൽ കപ്ലിങ് കാരണം ഒരു വോൾട്ടേജ് സ്രോതസ്സ് ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് j M i2 വും ഉണ്ടാകും അപ്പോൾ ഇത് വോൾട്ടേജ് ജനറേറ്ററിലെ മ്യൂച്ചൽ ഇൻഡക്റ്റൻസാണ് ഇനി രണ്ട് കോയിലുകൾ സീരീസാണെങ്കിൽ ഇതെങ്ങനെയാവുമെന്നത് നോക്കാം ഇതിന്റെ സമവാക്യം എങ്ങനെ എഴുതുമെന്ന് മാത്രം നോക്കാം ഇവിടെ ഈ കേസിൽ കോയിലുകൾ സീരീസിലാണ് ആദ്യത്തെ കോയിലിൽ കറണ്ട് i ഡോട്ടിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതേ കറണ്ട് ഈ ഡോട്ടിലേക്കും പ്രവേശിക്കുന്നുണ്ട് അതിനർത്ഥം അതിന്റെ ചിഹ്നം ആയിരിക്കും ഈ L1 ഉം L2 ഉം ഇതിന്റെ ഇൻഡക്റ്റൻസാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോയിൽ ഇതാണ് രണ്ടാമത്തെ കോയിൽ അതിനാൽ ഒന്നാമത്തെ കൊയിലിന്റെ ഡോട്ടിലേക്ക് പ്രവേശിക്കുന്ന അതേ കറണ്ടാണ് രണ്ടാമത്തെ കൊയിലിന്റെ ഡോട്ടിലേക്കും പ്രവേശിക്കുന്നത് അതിനാൽ ഇതിന്റെ ചിഹ്നം ആയിരിക്കും ഇനി ഇതിന്റെ v എഴുതുകയാണെങ്കിൽ v L1 di dt M di dt L2 di dt M didt ഇതിലെ M ഇവയ്ക്കിടയിലുള്ള മ്യൂച്ചൽ ഇൻഡക്റ്റൻസാണ് ഇനി ഇത് സീരീസ് സർക്യൂട്ട് ആയതിനാൽ കറണ്ട് സമമാണ് ഇവിടെ രണ്ട് കോയിലുകളുള്ളതിനാൽ ആവർത്തനം ഉണ്ടാകുന്നതാണ് ഈ കോയിൽ ഇവിടെയുള്ളതിനാൽ M di dt ഇവിടെയുണ്ടാകും അത് പോലെ ഈ കോയിൽ ഇവിടെയും ഉള്ളതിനാൽ M di dt ഇവിടെയും ഉണ്ടാകും അതിനാൽ ആവർത്തനം ഉണ്ടായിരിക്കും ഇത് രണ്ട് തവണയുണ്ടാകും കാരണം നമ്മൾ രണ്ട് കോയിലുകളും തനിയെ ആണ് പരിഗണിക്കുന്നത് ഈ കോയിൽ ഉള്ളത് കൊണ്ട് അതേ കറണ്ടാണ് ഒഴുകുന്നത് ഇവിടെ M didt ൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും അത് പോലെ ഈ കോയിൽ കാരണം കറണ്ട് i പോകുന്നുണ്ട് ഇവിടെത്തെ M didt ലും വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് അത് കൊണ്ടാണ് ഇത് രണ്ട് തവണ വരുന്നത് അപ്പോൾ v didt ഇതാണ് ടൈം ഡൊമൈൻ സർക്യൂട്ട് ഇനി മറ്റൊരു സാഹചര്യത്തിൽ ഈ ഡോട്ട് ഇവിടെ അല്ല പകരം കൊയിലിൽ ഇവിടെ ആണ് ഞാൻ ഡോട്ട് ചേർക്കുന്നതെന്ന് കരുതുക അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നാൽ കറണ്ട് i ഈ ഡോട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് പക്ഷെ ഇതേ i ഡോട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു

അതിനാൽ ഒരു കോയിലിൽ കറണ്ട് പ്രവേശിക്കുകയും അടുത്ത കൊയിലിൽ കറണ്ട് പുറത്തു പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇതിന്റെ ചിഹ്നം ഉം ഇതിന്റെ ചിഹ്നം ഉം ആയിരിക്കും ഇനി ഈ ഡോട്ടിനു പകരം ഇവിടെ ഡോട്ട് ചേർക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് പ്രവേശിക്കുകയും ഇവിടെ കറണ്ട് വിട്ട് പോവുകയുമാണ് അതിനാൽ ഇത് L1 L2 2 M ആവും സമാനമായി ഈ ഡോട്ടിനു പകരം ഇവിടെ ഡോട്ട് ചേർക്കുകയാണെങ്കിലും ഇവിടെ കറണ്ട് വിട്ട് പോവുകയും ഇവിടെ കറണ്ട് പ്രവേശിക്കുകയുമാണ് അപ്പോഴും ഇതിന്റെ ചിഹ്നം ഉം ഇതിന്റെ ചിഹ്നം ഉം ആയിരിക്കും ഇനി മറ്റൊരു സാഹചര്യത്തിൽ ഡോട്ട് ഇവിടെയും ഇവിടെയുമാണെന്ന് കരുതുക അതിനർത്ഥം ഇവിടെ കറണ്ട് വിട്ട് പോവുകയാണ് ഇവിടെയും കറണ്ട് വിട്ട് പോവുകയാണ് അപ്പോൾ ഇതിന്റെ ചിഹ്നം ഉം ഇതിന്റെ ചിഹ്നം ഉം ആയിരിക്കും അതിനാൽ കറണ്ട് രണ്ട് ഡോട്ടുകളിൽ നിന്നും പുറത്ത് പോവുന്നുണ്ടെങ്കിൽ ഇവിടെ ചിഹ്നവും ഏതെങ്കിലും ഒരു ഡോട്ടിൽ നിന്നാണ് പുറത്തേക്ക് പോവുന്നതെങ്കിൽ ചിഹ്നവും ആണ് അപ്പോൾ ഇത് ടൈം ഡൊമൈനാണ് j L1 ഉം j L2 ഉം ആയിരിക്കും ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വോൾട്ടേജ് ജനറേറ്ററുള്ള സർക്യൂട്ട് ആണെങ്കിൽ ഞാൻ സൂചിപ്പിച്ചത് പോലെ ഇത് രണ്ട് തവണയായി ആവർത്തിക്കുന്നതായിരിക്കും അതിനാൽ j L1 j M i ഉം j L2 j M i ഉം ആയിരിക്കും ഇത് പോലെയാണ് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സർക്യൂട്ട് അവതരിപ്പിക്കുന്നത് ഇനി ഇതിന്റെ i കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ ഇത് i j M i i j M i v ആയിരിക്കും ഇത് വോൾട്ടേജ് സ്രോതസ്സ് ആയതിനാൽ ഇത് j M i ഉം ഇതും j M i ആണ് ഇതിൽ നിന്ന് നമുക്ക് i കണ്ടെത്താനാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇൻഡക്റ്റൻസ് വോൾട്ടേജ് ജനറേറ്റർ ഇത് ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ആത്യന്തികമായി ഇത് i V j L1 L2 2 M ആവും ഒരു കോയിലിലെ ആ ഡോട്ടുകൾ നേർ വിപരീതമാക്കപ്പെട്ടാൽ സമവാക്യം 2 ലെയോ അല്ലെങ്കിൽ സമവാക്യം 3 ലെയോ മ്യൂച്ചൽ ടേമിന്റെ ചിഹ്നം മൈനസ് ആയിരിക്കും അതായത് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് കോയിലുകളുടെ ഇക്വലന്റ് ഇൻഡക്റ്റൻസ് L1 L2 ± 2 M ആയിരിക്കും ഇനി ഇതിന്റെ ഏതെങ്കിലും ഒരു കൊയിലിന്റെ സ്ഥാനം മാറ്റുകയാണെങ്കിൽ അപ്പോൾ ഇത് L1 L2 2M ആയിരിക്കും അതിനാൽ പൊതുവായി ഇത് L1 L2 ± 2M ആണ് നെറ്റ് ഇൻഡക്റ്റൻസ് പോസിറ്റീവ് ആവണമെന്നതിനാൽ ഇത് L1 L2 ≥ 2M ആവും ഇനി രണ്ട് കോയിലുകൾ പാരലലാണെങ്കിൽ ഈ രണ്ട് കോയിലുകളും പാരലലാണെന്ന് വെക്കുക ഇനി ഈ സൈക്ലിക് കറണ്ട് i1 ഉം i2 ഉം എടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ദിശയിൽ ഇത് i1 i2 ആണ് അതിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കറണ്ട് സൈക്ലിക്കാണ് കറണ്ട് i1 i2 ഉം കറണ്ട് i2 ഉം ഡോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് ഫ്രീക്വൻസി ഡൊമൈനും ഇത് രണ്ട് ഡോട്ടുകളും ഇത് മ്യൂച്ചൽ റിയാക്ക്റ്റൻസ് j M ആണ് അത്പോലെ ഇത് j L1 ഉം ഇത് j L2 ഉം ആണ് മറ്റുള്ളതൊക്കെ സമമാണ് ഇനി രണ്ട് കറണ്ടുകളായ i1 i2 ഉം i2 ഉം ഡോട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇനി ഡോട്ട് കൺവെൻഷൻ ഉപയോഗിച്ച് സമവാക്യം എഴുതുമ്പോൾ ചിഹ്നം ആയിരിക്കും വരുന്നത് ഇത് മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് M ആണ് അപ്പോൾ ഇതാണ് സമവാക്യം അതിനാൽ മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് വോൾട്ടേജ് ജനറേറ്ററിൽ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ i1 i2 ഉണ്ട് j L1 ഉണ്ട് ഇത് j M i2 ആയിരിക്കും അതിനാൽ ഇവിടെ ഉം ഉം ഉണ്ടാവും കാരണം i1 ഉം i2 ഉം ഡോട്ടിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇനി ഞാൻ ഡോട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് മാറ്റുകയാണെങ്കിൽ മേലെയുള്ളത് താഴേക്കാക്കുകയാണെങ്കിൽ ഇവിടത്തെ പൊളാരിറ്റിയിൽ മാറ്റമുണ്ടാവുന്നതാണ് സമാനമായി ഇവിടെയും i1 i2 ഉള്ളത് കൊണ്ട് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ ഇത് j M ആവുന്നതാണ് അപ്പോൾ ഇനി നമ്മളെന്താണ് ചെയ്യേണ്ടതെന്നാൽ ഇവിടെ v i1 എന്താണെന്ന് കണ്ടെത്തുക ഇനി ഇവിടെ നിങ്ങൾ kvl പ്രയോഗിക്കുന്നു ഇവിടെയും kvl പ്രയോഗിക്കുന്നു എന്നിട്ട് അത് i1 നും i2 വിനും പരിഹരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ i1 ആണ് I1 എന്നുള്ളത് പിഴവ് സംഭവിച്ചതാണ് നിങ്ങളിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ Zeq v i1 j ആയിരിക്കും സമവാക്യം 8 ലെ ഡിനോമിനേറ്ററിലെ M ന്റെ ചിഹ്നം ഡോട്ട് പോളാരിറ്റിയനുസരിച്ച് മാറുന്നു പക്ഷേ M2 പോസിറ്റീവ് ആയതിനാൽ ന്യൂമറേറ്റർ മാറുന്നില്ല അതിനർത്ഥം നമ്മൾ ഡോട്ട് പരസ്പരം മാറ്റുകയാണെങ്കിൽ ചിഹ്നം മാറും M ന്റെ ചിഹ്നം മാറും അതായത് ഈ സമവാക്യങ്ങൾ മാറുന്നു ഈ ഡിനോമിനേറ്ററിലുള്ളതും അതിനാൽ നിങ്ങൾ ഏത് ഡോട്ട് എടുത്താലും അതിപ്പോൾ ആണെങ്കിൽ അവ പരസ്പരം മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനർത്ഥം ഈ M നെഗറ്റീവോ പോസിറ്റീവോ ആവാം പക്ഷെ ഇവിടെ M 2 എപ്പോഴും പോസിറ്റീവായിരിക്കും അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി സമവാക്യം 6 ൽ നമ്മൾ L1 L2 ≥ 2 M എന്നത് പ്രസ്താവിച്ചിട്ടുണ്ട് ഇത് സീരീസ് സർക്യൂട്ടിനായിരുന്നു ഇനി മൊത്തത്തിലുള്ള ഇൻഡക്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കണം എന്നതിനാൽ L1 L2 M 2 ≥ 0 ആവും ഇതിൽ L1 L2 2M എന്നത് എപ്പോഴും പോസിറ്റീവായിരിക്കും ഇവിടെയും L1 L2 M2 ≥ 0 ആണ് ഇനി ഈ സമവാക്യത്തിൽ നിന്ന് M ≤ L1 L2 2 അത് പോലെ ഈ സമവാക്യത്തിൽ നിന്നും M ≤ √ L1 L2 ആണ് അപ്പോൾ ഇത് അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീൻ എപ്പോഴും അരിത്മെറ്റിക് മീനിനേക്കാൾ കുറവായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളെടുത്ത മൂല്യം ഉദാഹരണത്തിന് 3 5 എന്നീ രണ്ട് സംഖ്യകൾ എടുക്കുക അതിന്റെ അരിത്മെറ്റിക് മീൻ 35 2 4 ആണ് പക്ഷെ ഇനി നിങ്ങൾ അതിന്റെ ജോമെട്രിക് മീൻ എടുക്കുകയാണെങ്കിൽ 3 5 അതായത് √ 15 ആയിരിക്കും അപ്പോൾ ഇത് ജോമെട്രിക് മീൻ ആണ് അത് 4 നേക്കാൾ കുറവാണ് അതിനാൽ നമ്മൾ എടുത്ത സംഖ്യകൾ തുല്യമല്ലെങ്കിൽ ജോമെട്രിക് മീൻ എപ്പോഴും അരിത്മെറ്റിക് മീനിനേക്കാൾ കുറവായിരിക്കും ഇനി എടുത്ത രണ്ട് സംഖ്യയും 4 ആണെങ്കിൽ രണ്ടും തുല്യമായിരിക്കും അതിനാൽ ഇതിനർത്ഥം ഇക്വഷൻ 10 അനുസരിച്ച് മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് L1 L2 എന്നിവയുടെ അരിത്മെറ്റിക് മീനിനേക്കാൾ കുറവായിരിക്കണം ഇക്വഷൻ 11 പറയുന്നത് മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് L1 L2 എന്നിവയുടെ ജ്യോമെട്രിക്കൽ മീനിനേക്കാൾ കുറവായിരിക്കണം എന്നാണ് എന്നാൽ രണ്ട് ഇൻഡക്റ്റൻസുകളും തുല്യമാകുമ്പോൾ ഒഴികെ L1 L2 എന്നിവയുടെ ജോമെട്രിക് മീൻ L1 L2 എന്നിവയുടെ അരിത്മെറ്റിക് മീനിനേക്കാൾ കുറവാണ് അതിനാൽ √ L1L2 ≤ L1 L2 2 അവ തുല്യമാവുക L1 L2 ആവുമ്പോൾ മാത്രമാണ് അല്ലാത്തപ്പോഴെല്ലാം അവ കുറവായിരിക്കും അതിനാൽ മ്യൂച്ചൽ ഇൻഡക്റ്റൻസിന്റെ പരമാവധി മൂല്യം M max √ L1 L2 എന്നായിട്ടെടുക്കാം L1 L2 2 എന്നായിട്ടെടുക്കാൻ പറ്റില്ല അതിനാൽ ഇക്വഷൻ 11 ൽ നിന്ന് M √ L1L2 ≤ 1 എന്ന് കിട്ടും ഇത് ഇക്വഷൻ 13 ആണ് √ അതിനാൽ നമുക്ക് K M √ L1L2 എന്നായി നിർവചിക്കാം ഇതിനെ കപ്ലിങ് കോയിഫിഷ്യന്റ് എന്നാണ് വിളിക്കുന്നത് K പൂജ്യത്തിനും ഒന്നിനും ഇടയിലായിരിക്കും K 1 എന്നതിന്റെ ഭൌതിക അർഥം ഒരു കോയിലിലെ വൈദ്യുതധാര ഉൽപാദിപ്പിക്കുന്ന എല്ലാ ഫ്ലക്സുകളും മറ്റൊന്നിനെ ബന്ധിപ്പിക്കുന്നു എന്നതാണ് അതിനാൽ K1 ആണെങ്കിൽ അയേൺ കോർ ട്രാൻസ്ഫോർമർ K 1 ആണ് ഇതോട് കൂടി ഈ ലക്ച്ചർ അവസാനിപ്പിക്കുകയാണ്